പി മോസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഉള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയറിനും എൻ മോസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഉള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയറിനും സ്മോൾ സിഗ്നൽ പിക്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ ഒരേ പോലെയാണെന്ന് നാം കണ്ടിരുന്നു ഇവ തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഉള്ളത് പാരാമീറ്റർ വാല്യൂസിൽ ആണ് കാരണം µncox എന്നത് µpcox എന്നതിൽ നിന്നും വ്യത്യസ്തമാണ് VTP എന്നത് VTN എന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഒരേ പെർഫോമൻസ് ലഭിക്കാൻ കമ്പണൻറ് വാല്യൂസ് ഉപയോഗിക്കണം നിങ്ങൾ ഒരേ കമ്പണൻറ് വാല്യൂസ് ഉപയോഗിച്ചാൽ ഉദാഹരണത്തിന് ഒരേ ലോഡ് റസിസ്റ്റൻസ് load résistance തുടങ്ങിയവ കൂടാതെ ഒരേ ഓപ്പറേറ്റിങ് പോയിൻറ് ഉപയോഗിച്ചാൽ ഗെയിനിൻറെ ഒരു വ്യത്യസ്ത വാല്യു ലഭിക്കും പക്ഷേ ഇവിടെ സ്മാൾ സിഗ്നൽ പിക്ചറിൽ ഗുണപരമായി വ്യത്യാസമൊന്നുമില്ല ഇനി സ്വിങ് ലിമിറ്റ്സോടു കൂടിയ ആംപ്ലിഫയറിൻറെ ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം ഇനി ഇതാണ് പി മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇവിടെ ലളിതമാക്കാൻ വേണ്ടി Rs മാറ്റിവയ്ക്കുന്നു Rs ഉണ്ടാകുമ്പോൾ കൂടി കാൽക്കുലേഷൻസ് ഒരു പോലെയാണെങ്കിലും Rs R1 ║ R2 എന്നിവയ്ക്ക് ഇടയിലെ വോൾട്ടേജിൻറെ അധികം ആയിട്ടുള്ള ഡിവിഷൻ കൂടി ലഭിക്കുന്നു ഇത് ഞാൻ എടുത്തു മാറ്റാം കൂടാതെ ഇവ വളരെ വലുതാണെന്നും അവയെ ഷോർട്ട് സർക്യൂട്ട് ആയി പരിഗണിക്കാമെന്നും അനുമാനിക്കാം ഇത് 3 MΩ ഇത് 21 MΩ ആണെന്ന് കരുതാം അതിനാൽ ഈ വോൾട്ടേജ് 3 വോൾട്ട്സ് RD എന്നത് 100 KΩ RL എന്നത് 100 KΩ ആണെന്ന് കരുതാം ഇത് വിവരണത്തിന് വേണ്ടി മാത്രമാണ് ഇനി ക്വിസെൻറ് കണ്ടീഷനിൽ വോൾട്ടേജ് VSD 4 വോൾട്ട്സ് ആണ് ഇനി എന്തുകൊണ്ടാണ് സിഗ്നൽ സ്വിങിൽ ലിമിറ്റ്സ് ഉണ്ടാകുന്നത് ട്രാൻസിസ്റ്ററിന് ഒന്നുകിൽ ട്രയോഡ് റീജിയണിലേക്ക് അല്ലെങ്കിൽ കട്ടോഫിലേക്ക് പോകാൻ സാധിക്കും അതിനാൽ ഇതുകാരണം സർക്യൂട്ടിലേക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഇൻപുട്ട് vi യുടെ വാല്യൂവിന് പരിമിതമാണ് ഇനി ഇത് പി മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ പരിശോധിക്കാം കണ്ടീഷൻസ് എല്ലാം ഒരുപോലെ തന്നെയാണ് സാച്ചുറേഷനിൽ നിലനിൽക്കാനുള്ള കണ്ടീഷൻ VSD ≥ VSG VTP ആണ് കട്ടോഫ് ഒഴിവാക്കാനുള്ള കണ്ടീഷൻ ID 0 ആണ് ഓപ്പറേറ്റിംഗ് പോയിൻറ് വാല്യൂ അല്ല സിഗ്നൽ പ്രയോഗിക്കുമ്പോൾ ഉള്ള ടോട്ടൽ ക്വാണ്ടിറ്റിസ് ആണ് പരാമർശിക്കുന്നത് എൻ മോസ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ നമുക്ക് ആദ്യം ടോട്ടൽ VSG VSD ID എന്നിവ കണ്ടെത്തി അതിനുശേഷം കണ്ടീഷൻസ് പ്രയോഗിക്കണം ഓപ്പറേറ്റിംഗ് പോയൻറിൽ VSG0 3 volts വോൾട്ട്സ് VSD0 4 വോൾട്ട്സ് ആണുള്ളത് അല്ലെങ്കിൽ വോൾട്ടേജസ് ഗ്രൌണ്ടിലേക്ക് റഫർ ചെയ്താൽ ഗേറ്റ് വോൾട്ടേജ് 21 വോൾട്ട്സ് ഡ്രയിൻ വോൾട്ടേജ് 20 വോൾട്ട്സ് ആയിരിക്കും ചിലപ്പോൾ സാച്ചുറേഷൻ ട്രയോഡ് ബൌണ്ടറിക്കു വേണ്ടി VGS VDS എന്നിവയ്ക്കു പകരം കണ്ടീഷൻ VG VD എന്നിവയുടെ ടേംസിൽ പ്രസ്താവിക്കണം കറൻറ് ID 200 µA ആണ് ഇത് തീർച്ചയായും താഴോട്ടാണ് ഒഴുകുന്നത് ഇത് ഓർമിച്ചിരിക്കുക പി മോസ് ട്രാൻസിസ്റ്ററിൽ കറൻറ് താഴോട്ടാണ് ഒഴുകുന്നത് ഇനി സിഗ്നൽ vi പ്രയോഗിക്കുമ്പോൾ ഈ നോഡിലെ വോൾട്ടേജ് ക്വിസൻറ് വോൾട്ടേജ് 21 വോൾട്ട്സ് vi ആയിരിക്കും കാരണം vi പ്രയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് 0 ആക്കിയാൽ ഗ്രൌണ്ടിനെ അപേക്ഷിച്ച് ഇത് 21 വോൾട്ട്സ് ആണ് ഓർമ്മിക്കുക ചില നോഡിലെ വോൾട്ടേജ് എന്നുപറയുമ്പോൾ ഇത് സർക്യൂട്ടിൻറെ കോമൺ ഗ്രൌണ്ട് നോഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇത് 21 V vi ആണ് ഇനി ഈ പോയിൻറ് പവർ സപ്ലൈ കാരണം ഗ്രൌണ്ടിനു മുകളിൽ 24 വോൾട്ട്സ് ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി VSG കണ്ടെത്തിയാൽ VSG എന്നത് 24 വോൾട്ട്സ് ഗേറ്റ് വോൾട്ടേജ് അതായത് 3 വോൾട്ട്സ് vi ആയിരിക്കും ഇതിനെപ്പറ്റി മറ്റൊരുതരത്തിൽ ചിന്തിക്കാവുന്നത് ഇങ്ങനെയാണ് vi ക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ വോൾട്ടേജ് യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നു സോഴ്സ് വോൾട്ടേജ് അതേപോലെ നിലനിൽക്കുന്നു സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് യഥാർത്ഥത്തിൽ കുറയുന്നു കാരണം ഗേറ്റ് മുകളിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്തെന്നാൽ എൻ മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ ഇത് 3 V vi ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ VGS0 vi ഇനി പി മോസിൽ ഒരു മൈനസ് ഉണ്ട് VSG 3 V vi ഇനി ഡ്രയിനിലെ വോൾട്ടേജ് ക്വിസൻറ് വോൾട്ടേജ് 20 വോൾട്ട്സ് ആണ് അതിനാൽ സ്മാൾ സിഗ്നൽ പിക്ചറിൽ നിന്നും ലഭിക്കുന്ന ഡ്രയിനിലെ ഇൻക്രിമെൻറൽ വോൾട്ടേജ് എന്താണ് അതിനാൽ ഇവിടെ vi ഉണ്ട് ഇതാണ് മോസ് ട്രാൻസിസ്റ്ററിൻറെ ഗേറ്റ് ഡ്രയിൻ സോഴ്സ് എന്നിവ ഇവിടെ RD RL എന്നിവയുണ്ട് അതിനാൽ vGS vi ആണ് ഇത് gm vGS ആണ് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിനെ ആസ്പദമാക്കിയുള്ള ഡ്രയിൻ വോൾട്ടേജ് gm RD ║ RL vGS ആണ് ഇവിടെ gm എന്നത് 200 µS ആണ് RD RLഎന്നത് 100 KΩ ആണ് അതിനാൽ ഇത് ഇങ്ങനെ ആയി തീരും 200 µS 50 KΩ 10 vi അതിനാൽ ഡ്രയിനിലെ ഇൻക്രിമെൻറൽ വോൾട്ടേജ് 10 vi ആണ് ടോട്ടൽ വോൾട്ടേജ് 20 V 10 vi ആണ് VSD എന്നത് 24 വോൾട്ട്സ് മൈനസ് മുഴുവൻ ക്വാണ്ടിറ്റി ആണെന്ന് കാണാൻ സാധിക്കും അതിനാൽ VSD എന്നത് 4 V 10 vi ആണ് വീണ്ടും സൈൻ വിപരീതം ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവസാനമായി എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇൻക്രിമെൻറൽ ഡ്രയിൻ കറൻറ് ഇൻക്രിമെൻറൽ ഡ്രയിൻ കറൻറ് gm vGS ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്നു പക്ഷേ ടോട്ടൽ ഡ്രയിൻ കറൻറ് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് പോകുന്നു ഇൻക്രിമെൻറൽ ഡ്രയിൻ കറൻറ് gm vGS ഡ്രയിനിലേക്ക് പോകുന്നു അതിനാൽ ഡ്രയിനിൽ നിന്നും പുറത്ത് വരുന്ന ഇൻക്രിമെൻറൽ ഡ്രയിൻ കറൻറ് gm vGS ആണ് അതിനാൽ ടോട്ടൽ ഡ്രയിൻ കറൻറ് 200 µA gm vGS അല്ലെങ്കിൽ gm vi ആണ് കാരണം ഇവിടെ vi vGS എന്നിവ ഒന്നു തന്നെയാണ് ഇത് 200 µA 200 µS vi ആണ് അതിനാൽ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ചിഹ്നങ്ങളിൽ ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ആദ്യമായി ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയണിൽ നിലനിർത്താൻ നമുക്ക് ശ്രമിക്കാം VSD ≥ VSG VT ആണെങ്കിൽ ഇത് സാച്ചുറേഷൻ റീജിയണിൽ ആയിരിക്കും VSD 4 വോൾട്ട്സ് 10 vi ആയിരിക്കും പൊതുവേ ഇത് ഓപ്പറേറ്റിങ് പോയിൻറിൽ VSD0 ആയിരിക്കും ഇതിനെ ഞാൻ Q എന്ന് എഴുതാം ക്വിസൻറ് പോയൻറ് പ്ലസ് ആംപ്ലിഫയറിൻറെ ഗെയിൻ gm RD ║ RL vi ഇനി Rs ഉണ്ടെങ്കിൽ Rs R1 ║R2 എന്നിവ തമ്മിലുള്ള ഡിവിഷൻ ഉൾപ്പെടുത്തണം ഇത് VSG എന്നതിനേക്കാൾ കൂടുതലായിരിക്കണം VSG ഇവിടെ 3 വോൾട്ട്സ് vi ആണ് ഇത് മൈനസ് ത്രഷോൾഡ് വോൾട്ടേജ് ആയ 1 വോൾട്ട് VSD0 gm RD ║ RL vi VSG0 vi VTP ഇതിൽ നിന്നും എന്താണ് ലഭിക്കുന്നത് ഇത് മറ്റേ ഭാഗത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് 11vi 3 V 1 V 4 V 2 V അല്ലെങ്കിൽ vi 2 11 V ഇനി എൻ മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ vi യുടെ അപ്പർ ലിമിറ്റിന് വേണ്ടിയുള്ള സെറ്റിംഗ് ആയിരുന്നു സാച്ചുറേഷൻ റീജിയൻ ഇനി vi യുടെ ലോവർ ലിമിറ്റിന് വേണ്ടിയുള്ള സെറ്റ് ആണ് vi 2 11 വോൾട്ട്സ് ആണെന്ന് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് vi ചെറുതാകുമ്പോൾ ഗേറ്റ് വോൾട്ടേജ് ചെറുതാകുന്നു ഗേറ്റ് വോൾട്ടേജ് ചെറുതാകുമ്പോൾ സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് വലുതാകുന്നു ട്രാൻസിസ്റ്ററിലൂടെയുള്ള കറൻറ് വർദ്ധിക്കുന്നു ട്രാൻസിസ്റ്ററിലൂടെയുള്ള കറൻറ് വർദ്ധിക്കുമ്പോൾ ഡ്രയിൻ വോൾട്ടേജ് വർദ്ധിക്കുന്നു കാരണം ആ കറൻറ് RD RL എന്നിവയുടെ പാരലൽ കോമ്പിനേഷനിലേക്ക് ആണ് പോകുന്നത് ഡ്രയിൻ വോൾട്ടേജ് വർദ്ധിക്കുമ്പോൾ ഗേറ്റ് വോൾട്ടേജ് കുറയുന്നു ഡ്രയിൻ വോൾട്ടേജ് വർദ്ധിക്കുന്നതിനാൽ ഇത് ട്രയോഡ് റീജിയണിലേക്ക് പോകുന്നു ട്രയോഡ് റീജിയൺ സാച്ചുറേഷൻ ബൌണ്ടറി vi ക്ക് നെഗറ്റീവ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു കറൻറ്സ് വോൾട്ടേജസ് എന്നിവയുടെ പൊളാരിറ്റിസ് വിപരീതം ആയതിനാൽ എൻ മോസുമായി താരതമ്യം ചെയ്താൽ പി മോസിൻറെ സ്വിങ് ലിമിറ്റ് എതിരായിട്ടാണ് ഉള്ളത് ഇത് ഞാൻ വീണ്ടും പൊതുവായിട്ടുള്ള ടേംസിൽ എഴുതുന്നു vi ≥ 1gm RD ║ RL എൻ മോസ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ ഈ ടേംസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ഞാൻ മുൻപേ വിശദീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട് കാരണം ഗേറ്റ് വോൾട്ടേജ് ഒരു വോൾട്ട് ആയി മാറ്റം വരുന്നു അതേസമയം ഡ്രയിൻ ഗെയിൻ യൂണിറ്റ്സിൽ മാറുന്നു അതിനാൽ ഗേറ്റ് ഡ്രയിൻ വോൾട്ടേജ് 1 ഗെയിൻ യൂണിറ്റ്സ് ആയി മാറുന്നു ന്യൂമറേറ്റർ നോക്കിയാൽ ഈ വ്യത്യാസം ക്വിസൻറ് ഗേറ്റ് ഡ്രയിൻ വോൾട്ടേജ് അല്ലെങ്കിൽ ക്വിസൻറ് ഡ്രയിൻ ഗേറ്റ് വോൾട്ടേജ് എന്നതിൻറെ നെഗറ്റീവ് ആണ് അതിനാൽ ഡ്രയിൻ ഗേറ്റിനേക്കാൾ വളരെ താഴെയാണെങ്കിൽ ഇതിൻറെ ഇടയിലെ വേർതിരിവ് വളരെ വലുതായിരിക്കും നിങ്ങൾക്ക് വളരെ വലിയ സ്വിങ് ലിമിറ്റ് ലഭിക്കും എൻ മോസിൻറെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് ഡ്രയിൻ ഗേറ്റ് വോൾട്ടേജിനേക്കാൾ വളരെ മുകളിൽ ആയിരിക്കണം അങ്ങനെ ഇത് കുറഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു ഇവിടെ ഡ്രയിൻ ഗേറ്റ് വോൾട്ടേജിനേക്കാൾ വളരെ താഴെയായിരിക്കണം അങ്ങനെ ഇതിന് ഉയരാനുള്ള സാധ്യത ഉണ്ടാകുന്നു അതുപോലെ കട്ട് ഓഫ് കണ്ടീഷൻ പ്രയോഗിച്ചാൽ നമുക്ക് വേണ്ടത് ID ≥ 0 എന്നാണ് വീണ്ടും നേരത്തെ വിശദീകരിച്ചതുപോലെ സോഴ്സ് ഗേറ്റ് വോൾട്ടേജിനെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടീഷൻ കൂടി ഉപയോഗിക്കാമായിരുന്നു അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം പക്ഷേ കൺവെൻഷൻ പ്രകാരം നാം ഇത് ഉപയോഗിക്കുന്നു കാരണം ഇത് ബൈപോളാർ ട്രാൻസിസ്റ്ററിലും ഉപയോഗിക്കാൻ സാധിക്കും ഇനി ടോട്ടൽ ഡ്രയിൻ കറൻറ് അതായത് ക്വിസൻറ് കറൻറ് 200 µA 200 µS vi ≥ 0 ആണ് ഇത് പറയുന്നത് vi ≤ 1 V എന്നാണ് നേരത്തെ എൻ മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ കട്ട് ഓഫ് കണ്ടീഷൻ vi ക്കു മേൽ ലോവർ ലിമിറ്റ് ചുമത്തിയിരുന്നു ഇപ്പോൾ ഇത് അപ്പർ ലിമിറ്റിൽ ചുമത്തുന്നു കാരണം vi കൂടുതൽ പോസിറ്റീവ് ആകുന്നതോടെ ഗേറ്റ് മുകളിലേക്ക് പോകുന്നു സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് കുറയുന്നു ഡ്രയിൻ കറൻറ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പോയിൻറിൽ ഇത് കട്ട് ഓഫിൽ പ്രവേശിക്കും പൊതുവായുള്ള ടേംസിൽ ടോട്ടൽ ഡ്രയിൻ കറൻറ് ക്വിസൻറ് കറൻറ് gm vGS ആയിരിക്കും ഇത് പൂജ്യത്തെക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം അതിനാൽ നമ്മുടെ കാര്യത്തിൽ vGS എന്നത് vi ക്ക് തുല്യമാകുന്നു ഇത് gm vi vi ≤ ID0 gm ആണ് ചുരുക്കത്തിൽ എൻ മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ പി മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്നിവയുടെ സ്മാൾ സിഗ്നൽ പിക്ചർ ഒന്നു തന്നെയാണ് മറ്റെല്ലാ തരം ആംപ്ലിഫയർസിനും ഇത് സത്യമാണ് എൻ മോസ് പി മോസ് എന്നിവ നോക്കിയാൽ സ്മാൾ സിഗ്നൽ ഒന്നു തന്നെയായിരിക്കും ലാർജ് സിഗ്നൽ പ്രകാരം അവ വ്യത്യസ്തമായിരിക്കും പ്രത്യേകമായി സ്വിംഗ് ലിമിറ്റ്സ് വിപരീതമായിരിക്കും ചില സർക്യൂട്ടിൽ എൻ മോസ് ആംപ്ലിഫയറിൽ അപ്പർ ലിമിറ്റിൽ സാച്ചുറേഷൻ ചുമത്തും പി മോസ് ആംപ്ലിഫയറിൽ ഇത് ലോവർ ലിമിറ്റ് ചുമത്തും അതുപോലെയാണ് കട്ട് ഓഫിനും